ഇൻവെന്ററി വാലുവേഷനിൽ ഉള്ള നമ്മുടെ അടുത്ത മൊഡ്യൂൾ 3 2 ആരംഭിക്കാം നമ്മുടെ മുമ്പത്തെ മൊഡ്യൂളുകൾ നിങ്ങളൊന്ന് ഓർത്ത് നോക്കൂ മുമ്പ് നമ്മൾ ബാലൻസ് ഷീറ്റിനെക്കുറിച്ച് ചർച്ചചെയ്തു പിന്നീട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൌണ്ടിനെക്കുറിച്ചും കഴിഞ്ഞ രണ്ട് സെഷനുകളിലും നമ്മൾ ചർച്ച ചെയ്തു ടിപ്രിസിയേഷൻ അതിന്റെ കാൽക്കുലേഷൻ ടിപ്രിസിയേഷന്റ വിവിധ രീതികൾ എന്നിവയെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്തു Today we are going to start with another important item in both P and L balance sheet which is known as inventory So we will specifically look at inventory valuation Now what do you understand by inventory It is also called as stock പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൌണ്ടിലെയും ബാലൻസ് ഷീറ്റിലുമുള്ള മറ്റൊരു പ്രധാന ഐറ്റം തുടങ്ങുകയാണ് അത് ഇൻവെന്ററി എന്നറിയപ്പെടുന്നു അതിനാൽ നമ്മൾ പ്രത്യേകമായി തന്നെ ഇൻവെന്ററി വാലുവേഷൻ നോക്കും ഇപ്പോൾ ഇൻവെന്ററിയെ കുറിച്ച് നിങ്ങൾ എന്താണ് മനസ്സിലായത് ഇതിനെ സ്റ്റോക്ക് എന്നും വിളിക്കുന്നു അതിനാൽ ഇത് ബിസിനസ്സിൽ സെയ്ലിനായി സൂക്ഷിച്ചിരിക്കുന്ന ടാൻജിബിൾ പ്രോപ്പർട്ടിയെയാണ് സൂചിപ്പിക്കുന്നത് അതിനാൽ നിങ്ങൾക്ക് പലതരം ഇൻവെന്ററികൾ ഉണ്ട് സാധാരണയായി നിങ്ങൾ റോ മെറ്റിരിയൽസ് എന്ന് വിളിക്കും റോ മെറ്റിരിയൽസ് ഫിനിഷ്ഡ് ഗുഡ്സ് നിർമ്മിക്കുന്നതിനായി പ്രോസസ്സ് ചെയ്യുന്നു ഇപ്പോൾ പ്രോസസ്സിംഗ് സമയത്ത് ഇത് പൂർത്തിയായിട്ടില്ല അതിനാൽ തന്നെ ഇത് ഫിനിഷ്ഡ് ഗുഡ്സ് അല്ല അത് മെറ്റിരിയൽസ് ആണ് തുടർന്ന് നമ്മൾ അതിനെ വർക്ക് ഇൻ പ്രോഗ്രസ് എന്നും വിളിക്കാം

ഇപ്പോൾ ഇത് കൂടാതെ മൈന്റയിനൻസ് ആവശ്യങ്ങൾക്കായി ചില ഇനങ്ങൾ സൂക്ഷിക്കാം അവ സ്പെയർ പാർട്സുകളുടെ ഭാഗമോ സ്പെയർ പാർട്സുകളുടെ ഇൻവെന്ററിയുടെ ഭാഗമോ അത്തരം സ്റ്റോക്കുകളോ ആയിരിക്കും അതിനാൽ ഇതാണ് ഇൻവെന്ററി ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ കുറച്ച് ഭൂമി കൈവശം വച്ചാൽ അത് ഒരു ഇൻവെന്ററി ആകുമോ നമുക്ക് അതിനെ ഒരു ഇൻവെന്ററിയായി തരംതിരിക്കാമോ ഭൂമി ഒരു ഫിക്സെഡ് അസറ്റ് ആയതിനാൽ റീസെറ്റ് ചെയ്യാൻ കഴിയുന്നതല്ല എന്നതാണ് കൂടുതൽ ഈ ഉത്തരങ്ങൾ വരാനുള്ള കാരണം നിങ്ങൾ സാധാരണയായി ഭൂമി വാങ്ങുന്നു അത് നിർമ്മാണ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഫാക്ടറിക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഷോപ്പിനായും ഉപയോഗിക്കാം അതിനാൽ ഭൂമി ഒരു ഫിക്സെഡ് അസറ്റ് ആയി മാറുന്നു മാത്രമല്ല റീ സോൾഡ് ആയി വിൽക്കുന്നു അതിനാൽ അവർക്ക് ഭൂമി ഒരു ഇൻവെന്ററിയായി മാറുന്നു പക്ഷേ അതിനല്ലാതെ ഭൂമിയെ ഇൻവെന്ററി ആയി തരംതിരിക്കരുത് കാരണം നമ്മൾ ഇത് സാധാരണ ബിസിനസ്സിന്റെ ഭാഷയിൽ വിൽപ്പനയ്ക്കുള്ള ഇനങ്ങളായി നിർവചിക്കുന്നു ഇപ്പോൾ ഇതാ ഒരു ഉദാഹരണം കൂടി കാറുകൾ നിങ്ങൾക്ക് കാറുകളെ ഒരു ഇന്വെന്ററി ആയി കണക്കാക്കാമോ കാറുകൾ സ്വന്തം ഉപയോഗത്തിന് വേണ്ടിയുള്ളവയല്ല അതിനാൽ തന്നെ അവയെ വാഹനങ്ങളായി വർഗ്ഗീകരിച്ച് ഫിക്സെഡ് അസറ്റ് ആയി കണക്കാക്കുന്നു എന്നുള്ളതാണ് വീണ്ടും ഉത്തരം ചില കമ്പനികൾക്ക് മാത്രമാണ് കാറുകൾ ഒരു ഇൻവെന്ററി ആയിട്ടുള്ളത്ഏത് കമ്പനിയ്കൾ ക്കാണ് ഉദാഹരണത്തിന് ടാറ്റ മോട്ടോറുകൾ അവർ കാറിന്റെ നിർമ്മാതാക്കളാണ് മാരുതി കാറിന്റെ നിർമ്മാതാക്കളാണ് അതിനാൽ അവർക്ക് കാർ ഒരു ഇൻവെന്ററിയാണ് കാറുകളുടെ ഡീലർമാർക്ക്

ഇപ്പോൾ നഷ്ടപ്പെടുന്ന ഉപകരണങ്ങൾ അല്ലെങ്കിൽ മൈന്റയിനൻസ് സപ്ലൈസ് സ്പെയറുകളാണ് സൂക്ഷിക്കുന്നതെങ്കിൽ അത്തരം ഇനങ്ങൾ ഫിക്സെഡ് അസറ്റ് ആയി തരംതിരിക്കേണ്ടതാണ് കാരണം അവ വിൽക്കാൻ വേണ്ടിയുള്ളതല്ല ഇപ്പോൾ ഇൻവെന്ററിയുടെ വാല്യൂവേഷൻ വളരെ പ്രധാനമാണ് കാരണം ബാലൻസ് ഷീറ്റിലെ നിങ്ങളുടെ അസറ്റ് ഇനങ്ങളിലൊന്നാണ് ഇൻവെന്ററി അതിനാൽ ഏതെങ്കിലും വാല്യൂവേഷൻ നിങ്ങൾ അസറ്റിന്റെ എക്സൈസ്ബാധിക്കുന്നു കാരണം ഇൻവെന്ററിയും ഒരു ഇനമാണ് അതിനാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഐറ്റം നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ ഇന്വെന്ററിയിൽ മാറ്റം വരുത്തുക അതിനാൽ ഇത് ഈ പിരീഡിൽ ഉള്ള നമ്മുടെ ലാഭത്തെയോ നഷ്ടത്തെയോ ബാധിക്കും അതിനാൽഇന്വെന്ററി വാല്യൂവേഷനിൽ ശരിയായ തത്ത്വങ്ങൾ പ്രയോഗിക്കേണ്ടത് വളരെ പ്രധാനമാണ് അതിനാൽ ഇന്വെന്ററിയുടെ കോസ്റ്റ് പോകുന്നത് എന്താണെന്ന് ഇപ്പോൾ നോക്കാം അതിനാൽ സാധനങ്ങളുടെ വില ഒരു വ്യക്തമായ ഭാഗം ഞങ്ങൾ വാങ്ങിയ വില അല്ലെങ്കിൽ ഏറ്റെടുക്കൽ ചെലവ് So if you have purchased raw material for 20000 then the 20000 അത് ഇന്വെന്ററി കോസ്റ്റ് ആയിരിക്കും എന്നാൽ അതിനുപുറമെ നമ്മൾ കുറച്ച് ഇനങ്ങൾ കൂടി ചേർക്കുന്നു അതിനാൽ നമ്മൾ അത് കൊണ്ടുവരുന്നുവെന്ന് കരുതുക അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ചില വണ്ടികളോചരക്കുകളോ ഒക്കെ നമ്മുടെ ഫാക്ടറിയിലേക്കോ നമ്മുടെ സ്റ്റോറേജ് ഗോഡൌണിലേക്കോ എത്തിക്കുന്നു എന്നിട്ട് അത് അകത്തേക്ക് കൊണ്ടുപോകുന്നതിന് ചെലവഴിക്കുന്ന കോസ്റ്റും ചേർക്കുമ്പോൾ ഇന്വെന്ററി പർച്ചയ്സ് കോസ്റ്റ് മാത്രമല്ല ലൊക്കേഷനിൽ ഉള്ള മാറ്റവും നമ്മൾ നോക്കുന്നു നിങ്ങൾ ലോക്കേഷൻ മാറ്റുകയാണെങ്കിൽ അത് ഇന്വെന്ററി കോസ്റ്റിലേക്ക് ചേർക്കുന്നു സാധനങ്ങളുടെ കണ്ടീഷൻ മാറുകയാണെങ്കിൽ ആ കോസ്റ്റും ചേർക്കുന്നു So for example we have purchased raw material for 20000 we have spent 1000 for the carriage So 20 plus 1 now the cost is 21 then we spend some 5000 rupees to convert the raw material into finished goods Then when we are valuing finished goods inventory we will take 20 plus 1 that is 21 plus 5 So inventory will be valued at 26000 ok അതിനാൽ ലൊക്കെഷൻ മാറ്റുന്നതിനോ കണ്ടീഷൻ മാറ്റി ഇവയെല്ലാം ഇൻവെന്ററി വാല്യൂ വിൽ ചേർക്കാൻ കഴിയും Now there is an accounting standard 2 and in the new series there is IndAS 2 that defines how the valuation of inventory is to be done So as per AS 2 inventory should be valued at cost or net realisable value whichever is lower ഡിപ്രിസിയേഷനെ Because of conservatism if inventory is say having cost of 26000 as we discuss but its market value has gone down to say 22000 we will not take 26000 in the balance sheet we will record it at only 22000 but if the cost is 26 but its market value is 29 So we have 3000 rupees of profit but the profit is still unrealized So we will not value it at 29 we will keep it at 26 only ok അതിനാൽ വാലുവേഷനു വേണ്ടി ഇത് ഏതെങ്കിലുമൊക്കെ കുറവാണെന്നതിന്റെയോ അല്ലെങ്കിൽ അത് നെറ്റ് റിയലൈസബിൽ വാല്യൂ ആണ് ഇത് അതിനാൽ വിൽപന വിലയ്ക്ക് നിങ്ങൾ ഇനത്തെ വിലമതിക്കുകയാണെങ്കിൽ നമ്മൾ അത് ഉപയോഗിക്കും പക്ഷേ ഇനം വിൽക്കുന്നതിന് നിങ്ങൾക്ക് കോസ്റ്റ് വഹിക്കണം So the estimated selling price minus the cost which is required to complete the sale that will be reduced ഇപ്പോൾ അത് വിൽക്കാൻ കഴിയും അത് കമ്മീഷൻ ആവശ്യമാണ് പക്ഷേ നമ്മൾ തന്നെ അത് ചെലവഴിക്കേണ്ടിവരും we will reduce it from the cost we will reduce it from the market value to arrive at net realizable value അതിനാൽ നെറ്റ് റിയലിസബിൾ വാല്യൂ ചെയ്യുന്ന തുകയെയാണ് അത് സൂചിപ്പിക്കുന്നത് Now let us take a very simple case for calculation of net realizable value Now suppose for the year end 19 20 now the cost of semi finished product is 70000 we will have to spend further 10000 rupees for finishing it and then the product can be sold at 60000 But again we will have to pay commission of 5 percent on the selling price Now what will be the value of inventory in the balance sheet for year ended 19 and 20 just have a relook So how much will be the value will you pay 70 or will you pay 60 or something else because the cost is 70 as you can see but its selling price is unfortunately only 60 So will you take 60 Actually you will have to calculate NRV or Net Realizable Value I will just show you the calculation Now see in any case the cost which is 70 we will not be able to consider because the market value is less than 70 So we have started with the selling price which is 60 from that since this is a semi finished items some more cost is required to complete the item which is 10000 So estimated cost of completion which is 10 so 60 minus 10 and we will have to pay commission of 5 percent on sales So 60000 into 5 percent so 3000 is a commission 60 minus 10 minus 3 that means if you sell that item if you complete and sell that item you will realize 47000 but the cost which you have incurred is 70 But in the balance sheet we are going to record only 47000 are you getting Cost or NRV whichever is lower that will be the value of inventory for balance sheet purposes Now suppose just for discussion if the cost of this item would have been 47000 what we would have done We would have still calculated this 60 minus 10 minus 3 net realisable value 47 but its purchase cost is 40 So 47 or 40 in which case we will consider it at cost that is at 4000 are you getting So this was one important basic rule for valuation that always go for lower of cost or NRV ഇപ്പോൾ ഇന്വെന്ററി വാല്യുവേഷനായി ചില ടെക്നിക്കുകളോ ചില രീതികളോ ഉണ്ട് അവയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യും ഇപ്പോൾ കോസ്റ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നമ്മൾ ഇതിനകം കണ്ട അഞ്ച് രീതികളിലൂടെ മനസ്സിലായിട്ടുണ്ടാകാം എന്നാൽ മാർക്കറ്റ് വാല്യു കണക്കാക്കുമ്പോൾ നമ്മൾ കൂടുതൽ ടെക്നിക്കാലിറ്റിസിലേക്ക് പോകേണ്ടതുണ്ട് അതിനാൽ specific identification FIFO LIFO weighted average and adjusted selling price എന്നീ അഞ്ച് പ്രധാന രീതികൾ നമ്മൾ ചർച്ചചെയ്യാൻ പോകുന്നു ഇപ്പോൾ ഇനം ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുമ്പോൾ അത് വളരെ ലളിതമായിത്തീരുമ്പോൾ അതിന്റെ കോസ്റ്റ് എത്രയാണെന്ന് നമുക്കറിയാം അതിനാൽ നിങ്ങൾ ഒരു പെയിന്റിംഗ് നിർമ്മിക്കുകയാണെന്നും അല്ലെങ്കിൽ നിങ്ങൾ കസ്റ്റമൈസിഡ് പ്രോഡക്റ്റ് തയ്യൽ വസ്ത്രം പോലുള്ള എന്തെങ്കിലും നിർമ്മിക്കുകയാണെന്നും കരുതുക അല്ലെങ്കിൽ നിങ്ങൾ ഒരു കാർ വിൽക്കുകയാണെങ്കിൽ അതും ഒരു ഒരു ഡിസൈനർ കോസ്റ്റ് കാറാണ് അത്തരം സന്ദർഭങ്ങളിൽ വളരെ കോസ്റ്റലി ആണ് എന്ന് തിരിച്ചറിയാൻ കഴിയും ആ ഇനത്തിന്റെ വിലയും നിങ്ങൾക്ക് അറിയാൻ കഴിയും എന്നാൽ മിക്ക കേസുകളിലും സംഭവിക്കുന്നത് എന്താണെന്നുവെച്ചാൽ നിങ്ങൾ ഒരു ബൾക്ക് പ്രൊഡക്ഷൻ സിനാരിയോയിൽ ആണ് അതിനാൽ നിങ്ങൾ ആയിരക്കണക്കിന് ചില സന്ദർഭങ്ങളിൽ തുടർച്ചയായി ലക്ഷങ്ങളുടെ യൂണിറ്റ് അഭാവം ഉണ്ടാക്കുന്നു ഇത് അപ്രായോഗികമാണ് അത്തരം സന്ദർഭങ്ങളിൽ ഒരു പ്രത്യേക ഇനത്തിന്റെ വില അറിയുന്നത് അസാധ്യമാണ് നമ്മൾ ചെയ്യുന്നത്തിൽ സ്പെസിഫിക്ക് ഐഡൻറിറ്റിഫിക്കേഷൻ എല്ലായ്പ്പോഴും തിരിച്ചറിയാൻ കഴിയുമെങ്കിലും ചിലപ്പോൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്തയിടത്ത് മറ്റ് രീതികളിലേക്ക് പോകേണ്ടിവരും വളരെ ജനപ്രിയമായ രീതികളും സ്വീകാര്യമായ രീതിയും ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെതേഡ് ആകും Now in first in first out what happens is suppose we have got 50 items which are the older items new 200 items are coming and you have issued 30 items in a particular week or a month So 50 items are there new 200 items have come in and 30 items are going out we will assume that since the 50 items are already there in the opening inventory the 30 items which are issued must have been issued from the opening inventory So this is a simple queuing system like we are in a queue whoever has come first will get the ticket first then second then third then forth So as per the chronology of the receipts whenever an item has come in the inventory we will issue it in the same sequence എല്ലാ യൂണിറ്റുകളും അലൈവ് ആയതിനാലും ഇത് മാസ്സ് പ്രൊഡക്ഷൻ നടക്കുന്ന ഒരു സാഹചര്യമായതിനാൽ ഇഷ്യൂ രാൻഡം ആയിരിക്കാം അതിനാൽ ഏത് ഇനമാണ് പുതിയതെന്നും ഏത് ഇനം പഴയതാണെന്നും നിങ്ങൾക്ക് കൃത്യമായി അറിയില്ല എന്നാൽ വാല്യൂവേഷൻ ആവശ്യങ്ങൾക്കായി പഴയ ഇനങ്ങൾ ആദ്യം പുറപ്പെടുവിച്ചതായി നമ്മൾ അനുമാനിക്കും അവ ആ വിലയ്ക്ക് വാല്യൂ താരതമ്യേന പുതിയവയായി അവശേഷിക്കുകയും ചെയ്യും ഇൻവെന്ററിയിൽ ആയിരിക്കുംഅവരുടെ പാർച്ചയ്സ് കോസ്റ്റ് അവർ വാല്യൂ ചെയ്യുന്നതാണ് മനസ്സിലായോ നമുക്ക് ഒരു സിംപിൾ ആയ ഉദാഹരണം നോക്കാം ഇപ്പോൾ ഒരു പ്രത്യേക മാസത്തിൽ ഇതാണ് ഡാറ്റ എന്ന് നമുക്ക് പറയാം ഇപ്പോൾ രസീത് നമുക്ക് അറിയാം So we have purchased 5 units on date 5th we have purchased 5000 units at 7 then 12th 3000 units at 9 and then on 20th 6900 units at 9 After that on 22nd 8000 units at 11 and 27 2000 units at 13 so in a month totally there are five different purchases and we know the units and the prices Now 20000 units were issued during the month and we have to determine the value of closing stock Now you understand that since 20000 units are issued in the month they can be from any of the lots എന്നാൽ ഇതെല്ലാം വാല്യൂവേഷൻ ആവശ്യങ്ങൾക്കായി നാം നിർബന്ധമായും അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ അവ ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് വിതരണം ചെയ്യുന്നതെന്ന് നമ്മൾ കണക്കാക്കണം അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് ചെയ്യണം അഞ്ച് ഇനങ്ങൾ ഉള്ളതിനാൽ first in first out ഏറ്റവും പഴയ ഇനങ്ങൾ അല്ലെങ്കിൽ നേരത്തെ ലഭിച്ചവ ആദ്യം വിതരണം ചെയ്യും So we will first issue 5000 then 3000 then 6000 9000 and so on Till 20000 units are issued and then the remaining items that is a newer items they would remain in the stock Now let us have a look now the closing stock is 4900 So what we have done is we have taken total purchases which is 5 plus 3 plus 6900 plus 8 and plus 2 from which 20000 are issued So total 24900 items are available and 20 are issued So 4900 is in the stock the older ones that is those which were received on 5th 12th and 20th they have been issued completely the newer ones will remain in the stock So which are the most latest items 27 2000 13 is a latest item and since we have a stock of 2009 4900 of which 2000 is a purchased on 27 the remaining 2900 is purchased on 22nd ok So are you getting So 2000 units at 27th and 2900 purchased on 22nd Now we will go for valuation 2000 into 13 and 2900 at 11 this is the value of closing stock are you getting Now if we would have been using LIFO what would have happened In LIFO method the third method last in first out So in LIFO method what is assumed is the last items are issued first So we would have assumed that all the earlier items or all the later items are issued and the oldest purchase that is on 5th at 5000 is what is there in stock So 5000 rupee units were purchased at 7 rupees So I would have valued my stock as 5000 4900 into 7 instead of 57900 the cost would have been much lesser അതിനാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന FIFO അല്ലെങ്കിൽ LIFO രീതികൾ ഉപയോഗിച്ച് സ്റ്റോക്കിന്റെ മൂല്യം മാറുന്നു ഇപ്പോൾ നമുക്ക് LIFO രീതി നോക്കാം അതിനാൽ ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് LIFO രീതിയിൽ വിശദീകരിച്ചതുപോലെ ഏറ്റവും പുതിയ സാധനങ്ങളാണ് ആദ്യം പുറപ്പെടുവിച്ചത് വ്യത്യസ്തമായ തീയതികൾ നൽകി യൂണിറ്റുകളുടെ പ്രൈസ് നിങ്ങൾക്ക് അറിയാം Now 22000 units are issued during the month So what we will do is first we will have a look at the total purchases from that deduct 22000 So we come to know that 5500 units are available in the stock are you getting So orally tried to take total 3 plus 6 plus 2500 plus 7000 plus 9000 these are the total purchases from which 22000 units have been issued ok So total purchases were 27500 minus 22 So I am having a stock of 5500 units Now question is stock consists of which items the older items or newer items In FIFO method we had assumed that the older items are issued out and the newer item is in stock where as in LIFO it is assumed that the latest items have already been issued and the oldest items are in stock Since our stock is now 5500 we assume that these four purchases are already issued but the oldest item which is purchased on 2nd at 3000 at 16 is still in stock and there are another 2500 from 10th purchase at 20 that is also in stock So now you can have a look So 3000 units purchased on 2nd and 2500 units purchased on 10th So the stock is now 3000 into 16 and 2500 into 20 So value of closing stock is 98000 are you getting അതിനാൽ ഇപ്പോൾ നിങ്ങൾ LIFO FIFO എന്നിവയിൽ ഏത് രീതിയാണ് സ്റ്റോക്ക് ക്ലോസ് ചെയ്യുന്നതിന് കൂടുതൽ വാല്യൂ നൽകുന്നത് വിലകൾ ഉയരുന്നതിനാൽ സ്റ്റോക്ക് വാല്യൂ ചെറുതായി ഉയർന്ന പോലെയാണ് ഈ സ്റ്റോക്ക് വാല്യൂ മാർക്കറ്റ് വാല്യൂവിനോട് അടുക്കുന്നു അതിനാലാണ് FIFO രീതി സാധാരണയായി LIFO യേക്കാൾ പ്രഫർ ചെയ്യുന്നത് LIFO രീതിയിൽ ഏറ്റവും പുതിയ യൂണിറ്റുകൾ ഇതിനകം നൽകിയിട്ടുണ്ടെന്നും പഴയ യൂണിറ്റുകൾ സ്റ്റോക്കിൽ ഉണ്ടെന്നും അനുമാനിക്കാം LIFO നും FIFO നും ഇടയിൽ ഏത് രീതിയാണ് നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് നൽകുന്നത് സാധാരണഗതിയിലുള്ള വിലക്കയറ്റത്തിന്റെ സാഹചര്യത്തിൽ FIFO യിൽ സ്റ്റോക്ക് വാല്യൂ ഉയർന്നതാണ് അതിനാൽ അസറ്റ് വാല്യൂ ഉയർന്നതായിരിക്കും ലാഭവും കൂടുതലായിരിക്കും LIFO യിൽ അസറ്റ് വാല്യൂ കുറയും ലാഭം കുറവായിരിക്കും ഇപ്പോൾ മിക്ക കേസുകളിലും കമ്പനികൾ ലാഭത്തിന് ടാക്സ് നൽകണം അതിനാൽ കുറഞ്ഞ ലാഭം കാണിക്കാൻ അവർ ആഗ്രഹിക്കുന്നു അതിനാൽ അവർ LIFO പ്രഫർ ചെയ്യും എന്നിരുന്നാലും ഇൻകം ടാക്സ് അധികാരികൾ ഒരുപോലെ മിടുക്കരാണ് ഇൻകം ടാക്സ് അധികാരികൾ LIFO രീതി ഉപയോഗിക്കാൻ അനുവദിക്കില്ല സാധാരണയായി FIFO രീതിയാണ് മിക്ക നിയന്ത്രണ അധികാരികളും അനുവദിക്കുക എന്നാൽ രണ്ട് രീതികളും മനസ്സിലാക്കാനും താരതമ്യം ചെയ്യാനും രസകരമാണ് ഇപ്പോൾ ഞാൻ രണ്ട് വ്യത്യസ്ത കേസുകൾ FIFO യ്ക്കും ഒന്ന് LIFO യ്ക്കും എടുത്തിട്ടുണ്ട് രണ്ട് ഉദാഹരണങ്ങൾക്കും ഇപ്പോൾ LIFO FIFO എന്നിവ പ്രകാരം സ്റ്റോക്ക് കണക്കാക്കാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് LIFO യുടെ കീഴിലുള്ള സ്റ്റോക്കിന്റെ കമ്പറേറ്റിവ് ഫിഗർ ലഭിക്കും മനസ്സിലായോ ഇപ്പോൾ LIFO എക്സ്ട്രീം ആണ് FIFO മറ്റൊരു എക്സ്ട്രീം ആണ് ഫിഫോയിൽ സ്റ്റോക്കിന്റെ മൂല്യം സാധാരണയായി LIFO ൽ കൂടുതലാണ് ഇവിടെ കുറവാണ് മീഡിയ വഴി ഒരു മാർഗ്ഗമായി പ്രവർത്തിക്കുന്ന ഒരു മെത്തേഡ് കൂടി ഉണ്ട് ആ മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത് ഒരു വൈറ്റഡ് ആവറേജിന് നോക്കുന്നു അത് ഉപയോഗിക്കുന്നതിന് പകരം ന്യൂവർ കോസ്റ്റ് കീഴിൽ ഇൻവെന്ററിയുടെ വാല്യൂ മെല്ലെ മാറുന്നു അതിനാൽ വെയ്റ്റഡ് ആവറേജ് നിങ്ങൾക്ക് സാധനങ്ങളുടെ യൂണിറ്റുകളിൽ വിൽപ്പനക്ക് ലഭ്യമായ ടോട്ടൽ പ്രൈസ് ഫോർമുല ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനാൽ നമ്മൾക്ക് ആവറേജ് പ്രൈസ് ലഭിക്കും അതിനാൽ നമുക്ക് അറിയാവുന്ന എക്സാമ്പിൽ ക്വാണ്ടിറ്റിപ്രൈസ്എമൌണ്ട് എന്നിവ നിങ്ങൾക്ക് പരിശോധിക്കാം And we are given that 3200 units are issued in the period So what we do is since total quantities 3200 the total cost is 43 we can calculate 43 upon 32 44 is a weighted average price and the stock is 200 So 200 into 13 44 you get 2688 as a weighted average price നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇഷ്യു പ്രൈസ് വെയ്റ്റഡ് ആവറേജ് മികച്ചതാണ് കാരണം നിങ്ങൾ ഇഷ്യു പ്രൈസ് കണക്കാക്കിയാൽനിങ്ങൾക്ക് ഇത് ഒരു ഇഷ്യു വിലയായി കാണിക്കാനും നിങ്ങൾക്ക് ആ മൂല്യം എടുക്കാനും കഴിയും ഇവിടെ നോക്കൂ ഓൾഡ് കോസ്റ്റും 10 ആണ് അവസാനം 12 ഉം ആയിരുന്നു അതിൽ ഫ്ളക്റ്റ്യുവേഷൻഅധികാരികളും ഒന്നുകിൽ FIFO ഉപയോഗിക്കാൻ അനുവദിക്കുകയോ അല്ലെങ്കിൽ ആവറേജ് ഉപയോഗിക്കുകയോ ചെയ്യുന്നു ഇപ്പോൾ സെല്ലിങ് പ്രൈസ് അഡ്ജസ്റ്റ് ചെയ്ത അടുത്ത രീതിയിലേക്ക് പോകാം ഇപ്പോൾ പല കേസുകളിലും സംഭവിക്കുന്നത് കൂടുതൽ റെക്കോർഡുകൾ ലഭ്യമല്ല എന്നുള്ളതാണ് നൂറുകണക്കിന് ഇനങ്ങൾ ഉണ്ട് ഒരു കിരാന ഷോപ്പിനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ പലതരം ഇനങ്ങൾ ഉണ്ട് 100 അല്ലെങ്കിൽ 500 ഇനങ്ങൾ സൂക്ഷിക്കുകയും ധാരാളം ഇനങ്ങൾ ഓരോ തവണയും വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നു അതിനാൽ സ്റ്റോക്ക് സൂക്ഷിപ്പുകാരനോ കടയുടമയ്ക്കോ കൃത്യമായ വിലയും തീയതിയും അറിയില്ല അതിനാൽ ഇവിടെ നമ്മൾ അത്തരം വിവരങ്ങളുടെ ക്വാണ്ടിറ്റിയും പ്രൈസും നോക്കുകയായിരുന്നുലഭ്യമായ യഥാർത്ഥ ഇനങ്ങൾക്ക്പക്ഷേ പീരിയഡ് അവസാനിക്കുമ്പോൾ മാർച്ച് 31 ന് നമുക്ക് കണക്കാക്കാം അതിനാൽ യൂണിറ്റുകളുടെ എണ്ണം നമ്മൾ അറിയും പക്ഷെ കോസ്റ്റ് അറിയില്ല എന്നിരുന്നാലുംസെല്ലിങ് പ്രൈസ് അവർക്ക് അറിയാൻ എളുപ്പമാണ് റീടെയ്ൽ സെല്ലിങ് പ്രൈസ് പാക്കേജിൽ എഴുതേണ്ടതുണ്ട് അതിനാൽ ഇത് വളരെ എളുപ്പമാണ് അതിനാൽ എന്താണ് ചെയ്യുന്നത് നമ്മൾ ആദ്യം സ്റ്റോക്കിന്റെ സെല്ലിങ് പ്രൈസ് കണക്കാക്കുന്നു പക്ഷേ നമുക്കറിയാം സെല്ലിങ് പ്രൈസിൽ സ്റ്റോക്ക് കാണിക്കാൻ കഴിയില്ല എന്നുള്ളത് അതിനാൽ നമ്മൾ അവിടെ പ്രൊഫിറ്റ് മാർജിൻ കുറയ്ക്കുന്നു വിവിധ തരം ഉൽപ്പന്നങ്ങളുടെ പ്രൊഫിറ്റ് മാർജിൻ എസ്റ്റിമേറ്റ് ആയിരിക്കും അതിനാൽ സ്റ്റോക്ക് ലിസ്റ്റിന്റെ വാല്യു നിങ്ങൾക്ക് സ്റ്റോക്ക് പ്രൈസ് ലഭിക്കുന്ന മാർജിൻ ഇത് ഒന്നും എക്സാക്റ്റ് വാല്യു അല്ല എസ്റ്റിമേറ്റ് ആണ് പക്ഷേ ഇത് എക്സാക്റ്റ് വാല്യുവിന്റെ സമീപമായിരിക്കും അതിനാൽ നമുക്ക് നോക്കാം അതിനാൽ ഇവിടെ തീയതി തിരിച്ചുള്ള വിവരങ്ങൾ ലഭ്യമല്ല പക്ഷേ ഒരു പ്രത്യേക മാസത്തിലുള്ള ഗുഡ്സ് പർച്ചേസ്ഡ്ട്രാൻസ്പോർട്ട് കോസ്റ്റ്സ്റ്റോറേജ് കോസ്റ്റ് എന്നിവ അറിയാം ഇപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ സെയ്ലും സെല്ലിങ് പ്രൈസും അവർക്ക് അറിയാം ക്ലോസിംഗ് സ്റ്റോക്കിന്റെ കൃത്യമായ വില അറിയുക Now what is first one is you will add sales and the selling price of stock So the total value is 60000 Then we will deduct various types of expenses So less purchase cost transport cost and storage cost that means there is a gross profit of 28000 Now 28000 is on a total of 60 So 28 upon 60 the gross margin is 46 So for each type of product line a gross margin is calculated which is 46 67 percent So the selling price of closing stock is 10000 minus 46 67 percent that is 4667 you get the value of inventory as 5333 are you getting ഇത് അവർ സാധനങ്ങളുടെ എസ്റ്റിമേറ്റെഡ് കോസ്റ്റ് ആണ് അവർക്ക് കൃത്യമായ വാല്യൂ അറിയില്ല പ്രോഫിറ്റ് മാർജിൻ നെഗറ്റീവ് ആണെന്ന് കരുതുക അതായത് വില സെല്ലിങ് പ്രൈസിനെക്കാൾ കൂടുതലാണ് നമ്മൾ അതിനെ സെല്ലിങ് പ്രൈസ് ആയി കാണിക്കും എന്നാൽ ഇവിടെ കോസ്റ്റ് കണക്കാക്കിയ പ്രൈസ് മുതൽ 5333 and selling price is 10000 the stock will now be valued at 5333 ഇപ്പോൾ സെല്ലിങ് പ്രൈസ് ക്രമീകരിച്ച അവസാന രീതി വളരെ അനുയോജ്യമായ രീതിയല്ല പക്ഷേ അത്തരം സന്ദർഭങ്ങളിൽ റെക്കോർഡുകൾ ലഭ്യമാവില്ല അതിനാൽ ഇത് ഉപയോഗിച്ച് നമ്മൾ ഇത് കംപ്ലീറ്റ് ചെയ്യുന്നു ഇപ്പോൾ നമ്മൾ കുറച്ച് വേഗത്തിൽ പോകുകയാണ് തീർച്ചയായും ഇൻവെന്ററി വാല്യൂവേഷൻ സംബന്ധിച്ച വിഷയംകൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ഡിസ്ക്ഷൻ ഫോറത്തിൽ കൂടുതൽ ചർച്ചചെയ്യാനും വ്യത്യസ്ത കേസുകൾ ക്രിയേറ്റ് ചെയാനും ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു LIFO ന് കീഴിലുള്ള FIFO യുടെ ഇവാലുവേഷൻ വൈറ്റഡ് ആവരേജിലും പ്രൈസിലും എന്താണെന്ന് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിങ്ങൾ മനസിലാക്കണം അതിനാൽ നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം ഏത് രീതിയാണ് അനുയോജ്യമെന്നത് കണ്ടെത്തുകയാണ് നിങ്ങളുടെ സ്വന്തം ആനുവൽ റിപ്പോർട്ട് നോക്കിയ ശേഷം കമ്പനി ഏത് രീതിയാണ് ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കുക അവർ ഇന്വെന്ററിയിൽ ഒരു നോട്ട് എഴുതുകയും ഇൻവെന്ററി ഈ ഒരു വാല്യുവേഷൻ ആണ് ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സഹായിക്കും ഇത് വാല്യുവേഷനെക്കുറിച്ച് കൂടുതൽ ഉൾക്കാഴ്ച നിങ്ങൾക്ക് നൽകുന്നതാണ് ഇൻവെന്ററിയെക്കുറിച്ചുള്ള എല്ലാ സെഷനുകളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു